ഇന്ന് നമ്മൾ പ്രോജക്റ്റ് ആസൂത്രണത്തെക്കുറിച്ചും പ്രോജക്റ്റ് എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും ആദ്യം നമുക്ക് വിജയകരമായ ഒരു പ്രോജക്റ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നു നോക്കാം അതിനാൽ യോജിച്ച പ്രവർത്തനക്ഷമതയോടെ നിങ്ങൾക്ക് ഉചിതമായ സമയത്ത് പ്രോജക്റ്റ് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതാണ് അന്തിമ ഉപയോക്താവുമായി ചർച്ച ചെയ്യുന്നത് തുടർന്ന് ആഗ്റീഡ് കോസ്റ്റിൽ ഉപയോക്താവുമായി തീരുമാനിക്കുന്ന മ്യുച്ചൽ കോസ്റ്റ് തുടർന്ന് ആവശ്യമായ ഗുണനിലവാരത്തിൽ ഉപയോക്താവ് ആഗ്രഹിക്കുന്ന ഗുണനിലവാരം എന്താണ് നമ്മൾ നൽകിയ അത്രയും ഗുണനിലവാരം കൊണ്ട് ഉപയോക്താവ് തൃപ്തിപ്പെടു൦ തുടർന്ന് ഈ പ്രോജക്റ്റ് വിജയകരമാണെന്ന് നമ്മൾ പറയുന്നു ഇതിനായി നമുക്ക് രണ്ട് ഘട്ടങ്ങൾ ആവശ്യമാണ് അതാണ് ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കേണ്ടത് തുടർന്ന് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കണം പക്ഷേ ചിലപ്പോൾ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രോജക്ട് മാനേജർ ആ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ ശ്രമിക്കുന്നു പക്ഷേ അത് നേടാൻ കഴിയില്ല പിന്നെ അവർ എന്തുചെയ്യണം ശരിയായ ആസൂത്രണത്തിന്റെ അഭാവവും ശരിയായ എസ്റ്റിമേറ്റും കാരണം യഥാർത്ഥത്തിൽ പദ്ധതികൾ പരാജയപ്പെടും അതിനാൽ അദ്ദേഹം ശരിയായ ആസൂത്രണവും കണക്കാക്കലും നടത്തണം അങ്ങനെ പദ്ധതി വിജയിക്കും പ്രൊജക്റ്റ് മാനേജർ അദ്ദേഹം ഇതിനകം തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ പ്രോജക്റ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി ആസൂത്രണം ചെയ്യണമെന്നും പ്രോസസ് പ്രോജക്റ്റ് വിജയം നേടുന്നതിന് ശരിയായ വിലയിരുത്തൽ നടത്തണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രോജക്റ്റ് ആസൂത്രണത്തിന്റെ ആമുഖത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പറയാം ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനുമുമ്പ് പ്രോജക്റ്റ് സാധ്യമായ പഠന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് ഇതിനകം കണ്ടു ഒരു പ്രോജക്റ്റ് പ്രായോഗികമാണെന്ന് കണ്ടെത്തിയാൽ എല്ലാ കാര്യങ്ങളിലും ഒരു നിർദ്ദേശം പ്രായോഗികമാണെന്ന് കണ്ടെത്തിയാൽ സാങ്കേതികത പോലെ അത് സാങ്കേതികവും പ്രായോഗികവും സാമ്പത്തികവുമായി സാധ്യവുമാണ് പ്രവർത്തന സാധ്യത തുടർന്നുള്ള നടപടികൾക്കായി പ്രോജക്ട് മാനേജർമാർ അത് എടുക്കും അതിനാൽ പ്രോജക്റ്റ് മാനേജർമാരുടെ പ്രവർത്തനങ്ങൾ വൈവിധ്യമാർന്നതാണ് അവയെ വിശാലമായി രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ഒന്ന് പ്രോജക്റ്റ് ആസൂത്രണവും തുടർന്ന് അദ്ദേഹത്തിന് പ്രോജക്റ്റ് നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ട് അതിനാൽ ആക്റ്റിവിറ്റി പ്രോജക്ട് മാനേജർമാരുടെ പ്രവർത്തനങ്ങൾ ഈ രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റ് മാനേജർക്ക് പ്രായോഗികമാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം പദ്ധതി ആസൂത്രണം ഏറ്റെടുക്കണം വികസനം ആരംഭിക്കുന്നതിനുമുമ്പ് ആദ്യം അദ്ദേഹം ഒരു പ്രാരംഭ പദ്ധതി തയ്യാറാക്കണം ഈ പ്ലാൻ പതിവായി അപ്ഡേറ്റു ചെയ്യുന്നു പ്രോജക്റ്റ് ചെയ്യുന്നത് മൂല്യവത്താണോ അല്ലയോ എന്ന് അറിയുന്നതിനാണ് ആദ്യം പ്രോജക്റ്റ് പഠനം നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അപ്പോൾ പ്രോജക്ട് മാനേജർ പദ്ധതി വികസിപ്പിക്കണം ഇവിടെ അവർ അത് എങ്ങനെ ചെയ്യും ഈ പ്രോജക്റ്റ് അവർക്ക് എങ്ങനെ പിന്തുടരാനാകും അതിനാൽ അവർ ഒരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട് ഒടുവിൽ പ്രോജക്റ്റ് എക്സിക്യൂഷൻ സ്റ്റെപ്പ് അവർ ഇവിടെ തയ്യാറാക്കിയ ഏത് പ്ലാനും യഥാർത്ഥത്തിൽ നടപ്പിലാക്കണം അവർ പ്രോജക്റ്റ് എക്സിക്യൂഷൻ നടപ്പിലാക്കണം ഇപ്പോൾ വിവിധ പദ്ധതി ആസൂത്രണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഹ്രസ്വമായി നോക്കാം അതിനാൽ നമ്പർ 1 കണക്കാക്കൽ കണക്കാക്കൽ ഘട്ടത്തിൽ എന്താണ് കണക്കാക്കേണ്ടത് പരിശ്രമം ചെലവ് ഉറവിടം പ്രോജക്റ്റ് ദൈർഘ്യം പ്രൊജക്റ്റ് മാനേജർ ശരിയായ ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടതുണ്ട് ശരിയായ ഷെഡ്യൂൾ വികസിപ്പിക്കണം ചില ഷെഡ്യൂളിംഗ് രീതികൾ പാലിക്കേണ്ടതുണ്ട് ആസൂത്രണം ചെയ്യേണ്ട ഈ പദ്ധതിക്ക് എത്ര സ്റ്റാഫുകൾ ആവശ്യമാണ് എന്നതിനെക്കുറിച്ച് ഒരു സ്റ്റാഫ് ഓർഗനൈസേഷനും ശരിയായി ചെയ്യേണ്ടതുണ്ട് ഓരോ പ്രോജക്റ്റിലും ചില റിസ്ക് അടങ്ങിയിരിക്കുന്നതായി നമുക്കറിയാവുന്നതുപോലെ റിസ്ക് കൈകാര്യം ചെയ്യുന്നതിന് ചില വ്യത്യസ്ത അല്ലെങ്കിൽ ചില നിർദ്ദിഷ്ട രീതികൾ പിന്തുടരേണ്ടതുണ്ട് റിസ്ക് തിരിച്ചറിയുക റിസ്ക് വിശകലനം ചെയ്യുക റിസ്ക് കുറയ്ക്കുക എന്നിവ പ്രോജക്ട് മാനേജർമാർക്ക് പലവക പദ്ധതികൾ പാലിക്കേണ്ടിവരാം അതാണ് ഗുണനിലവാര ഉറപ്പ് പദ്ധതി കോൺഫിഗറേഷൻ മാനേജുമെന്റ് പ്ലാൻ തുടങ്ങിയവ ഒരു പ്രോജക്റ്റ് ആസൂത്രണ പ്രവർത്തനത്തിന്റെ പ്രവർത്തനമെന്താണെന്ന് വിശദമായി നോക്കാം ആദ്യം മാനേജർ നിശ്ചിത പ്രോജക്റ്റ് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ ഘട്ടങ്ങൾ തിരിച്ചറിയണം ഓരോ ഘട്ടത്തിലും നിർവഹിക്കേണ്ട ഒരു ദൌത്യം അദ്ദേഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനായി അദ്ദേഹം വർക്ക് ബ്രേക്ക്ഡൌൺ സ്ട്രക്ചർ തുടങ്ങിയവ ഉപയോഗിച്ചേക്കാം ഓരോ ജോലിയും എത്രമാത്രം ആവശ്യമാണെന്ന് അദ്ദേഹം കണക്കാക്കേണ്ടതുണ്ട് കൂടാതെ ഓരോ ജോലിയും നിർവഹിക്കുന്നതിന് എത്ര റെസോര്സേസ് ആവശ്യമാണെന്നും അദ്ദേഹം കണക്കാക്കേണ്ടതുണ്ട് 3 4 എന്നീ ഇനങ്ങളുടെ നമ്പർ അറിയാമെങ്കിൽ പ്രോജക്റ്റ് മാനേജർ ഓരോ ജോലിയും ഘട്ടവും എത്ര സമയമെടുക്കും എന്ന് കണക്കാക്കേണ്ടതുണ്ട് അതിനർത്ഥം അദ്ദേഹം പ്രോജക്റ്റ് ദൈർഘ്യം കണക്കാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ടാസ്ക് ഘട്ടവും പ്രോജക്റ്റ് ചെലവും അദ്ദേഹം കണക്കാക്കേണ്ടതുണ്ട് ഈ ടാസ്ക് വികസിപ്പിക്കുന്നതിനോ വ്യക്തിഗത ഘട്ടത്തിനായോ അല്ലെങ്കിൽ മുഴുവൻ പ്രോജക്റ്റിനായോ എത്ര ചെലവ് വരും എന്നും കണക്കാക്കണം ടാസ്കിലെ പരസ്പര ആശ്രിതത്വം എന്തെങ്കിലുമുണ്ടെങ്കിൽ അതും നിർണ്ണയിക്കേണ്ടതുണ്ട് ഒടുവിൽ ഓരോ ജോലിക്കും മുഴുവൻ പദ്ധതിക്കും ഒരു ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടതുണ്ട് ഇവിടെ അദ്ദേഹം നാഴികക്കല്ലുകൾ വിതരണം ചെയ്യാവുന്ന ചെലവും പേയ്മെന്റുകളും ഉപയോഗിക്കാം പ്രോജക്റ്റ് ആസൂത്രണത്തിനായി നിങ്ങൾ എന്തിനാണ് പോകേണ്ടതെന്ന് ഇപ്പോൾ നോക്കാം കാരണം പ്രോജക്റ്റ് ആസൂത്രണത്തിന് വളരെയധികം ശ്രദ്ധയും ആവശ്യമാണ് കാരണം യാഥാർത്ഥ്യമല്ലാത്ത സമയത്തിനും റീസോർസ് എസ്റ്റിമേറ്റിനുമുള്ള പ്രതിബദ്ധത പിന്തുടരലിന് കാരണമാകുന്നു പ്രോജക്റ്റ് മാനേജർ ചില യാഥാർത്ഥ്യബോധമില്ലാത്ത സമയങ്ങൾ ചെയ്തുവെങ്കിൽ അവർക്ക് ഒരിക്കലും നേടാൻ കഴിയാത്തതും ചില റിസോഴ്സ് എസ്റ്റിമേറ്റുകളും സാധ്യമല്ലെങ്കിൽ ഇനിപ്പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇനിപ്പറയുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് കാരണമാകും ഇത് അനാവശ്യമായി പദ്ധതികളുടെ വിതരണം വൈകിപ്പിച്ചേക്കാം അതിനാൽ ഉപഭോക്താവിനെ പ്രകോപിപ്പിക്കുകയും ഉപഭോക്താവ് അസംതൃപ്തരാവുകയും ചെയ്യും ഗുണനിലവാരമില്ലാത്ത ജോലികൾ കാരണം ടീം മനോവീര്യം പ്രതികൂലമായി ബാധിക്കും കൂടാതെ അനുചിതമായ എസ്റ്റിമേറ്റ് തുടങ്ങിയവ കാരണം ഇത് സംഭവിക്കാം അതിനാൽ പദ്ധതി പരാജയപ്പെട്ടേക്കാം അതിനാൽത്തന്നെ പദ്ധതി ആസൂത്രണത്തിന് ശ്രദ്ധ നൽകേണ്ടത് വളരെ പ്രധാനമാണ് സ്ലൈഡിംഗ് വിൻഡോ പ്ലാനിംഗ് ഒരു പ്രത്യേക തരം ആസൂത്രണമാണ് അതിൽ നിരവധി ഘട്ടങ്ങളിൽ പ്രോജക്റ്റ് ആസൂത്രണം ഉൾപ്പെടുന്നു ഇത് ഒരു ഘട്ടത്തിൽ പദ്ധതി തയ്യാറാക്കുന്നില്ല പകരം ഒരൊറ്റ ഘട്ടത്തിൽ ഇത് നിരവധി ഘട്ടങ്ങളായി പദ്ധതി ആസൂത്രണം തയ്യാറാക്കുന്നു സാധാരണയായി ഇത് വളരെ നേരത്തെ തന്നെ വലിയ പ്രതിബദ്ധതയിൽ നിന്ന് മാനേജർമാരെ സംരക്ഷിക്കുന്നു കാരണം സാധാരണയായി മാനേജർമാർ ചെയ്യേണ്ടത് അവർ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രതിജ്ഞാബദ്ധത ഉണ്ടാക്കുന്ന ആദ്യകാല ആവശ്യകതകളാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ വെച്ച് തന്നെ പ്രോജക്റ്റ് കൈമാറും അത് അവർ യഥാർത്ഥത്തിൽ നേടിയേക്കില്ല വിൻഡോ പ്രോട്ടോക്കോൾ സ്ലൈഡു ചെയ്യുന്നതിനോ വിൻഡോ പ്ലാനിംഗ് സ്ലൈഡു ചെയ്യുന്നതിനോ വളരെ നേരത്തെ തന്നെ വലിയ പ്രതിബദ്ധതകളിൽ നിന്ന് അവരെ തടയും അതിനാൽ ഈ തത്വം നിങ്ങൾ നെറ്റ്വർക്കിംഗിൽ പഠിച്ച പോലെ ഒരു ജാവ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോക്കോൾ പോലെ ആണ് പ്രോജക്റ്റ് പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും തുടക്കത്തിൽ ലഭ്യമായ വിവരങ്ങൾ കുറവാണെങ്കിൽ പുരോഗതി എന്താകും അതിനാൽ അവ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങളെക്കുറിച്ച് ആകും കൂടുതൽ വരുന്നത് പിന്നീട് ലഭിച്ച ഈ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ കൃത്യമായ ആസൂത്രണത്തിന് സഹായിക്കും അതുകൊണ്ടാണ് ഒരു വിൻഡോയിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ നിർമ്മിക്കുന്നതിനുപകരം ഒരു ഘട്ടത്തിൽ മാനേജർമാർ പല ഘട്ടങ്ങളിലായി ആസൂത്രണം നടത്തുന്നത് അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി വിൻഡോ എന്ന ആശയം ഉപയോഗിക്കുന്നത് അവസാനമായി ഈ ക്ലാസിക്കൽ വാട്ടർ ഫാൾ മോഡലിന്റെ ഓരോ ഘട്ടത്തിലും ചില ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം സമാനമായി ഈ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെന്റിന്റെ ഔട്ട്പുട്ട് എന്താണ് അതിന്റെ ഔട്ട്പുട്ട് ഈ എസ്പിഎംപി പ്രമാണമാണ് ഇത് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജുമെന്റ് പ്ലാൻ ഡോക്യുമെന്റ് എന്നറിയപ്പെടുന്നു ആസൂത്രണം പൂർത്തിയായ ശേഷം പ്രോജക്റ്റ് മാനേജർ സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജുമെന്റ് പ്ലാൻ ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്ന ഒരു പ്രമാണത്തിൽ പദ്ധതികൾ രേഖപ്പെടുത്തണം എന്താണ് സംഘടന ഓർഗനൈസേഷന്റെ ഉള്ളടക്കങ്ങൾ എന്തായിരിക്കും പദ്ധതിയുടെ ആമുഖം ലക്ഷ്യങ്ങളും പ്രധാന പ്രവർത്തനങ്ങളും തുടങ്ങിയവ വിവരിക്കേണ്ടതാണ് ചരിത്രപരമായ ഡാറ്റ എസ്റ്റിമേറ്റ് ടെക്നിക്കുകൾ ചെലവ് പരിശ്രമത്തിനും പ്രോജക്റ്റ് കാലാവധി മുതലായവയ്ക്കും കണക്കാക്കേണ്ട വിവിധ പ്രോജക്റ്റ് എസ്റ്റിമേറ്റുകളും വിവരികേണ്ടാതാണ് അവ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം പ്രോജക്റ്റ് റിസോഴ്സ് പ്ലാൻ അതിൽ അടങ്ങിയിരിക്കും പ്രോജക്ടിന് ആവശ്യമായ റീസോര്സേസ് എന്തൊക്കെയാണ് ആളുകൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഏതെങ്കിലും പ്രത്യേക റീസോര്സെസ്സ് എന്നിവയായിരിക്കാം ഇനിപ്പറയുന്നവയിൽ ഈ ഉള്ളടക്കത്തിലെ ഏതെങ്കിലും ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ വർക്ക് ബ്രേക്ക് ഡൌൺ ഘടന നിങ്ങൾ ഉപയോഗിക്കുന്നതുപോലുള്ള ഏത് ഇനവും ഉണ്ടായിരിക്കണം അത് ടാസ്ക് നെറ്റ്വർക്ക് ഗാന്റ് ചാർട്ട് പിഇആർടി ചാർട്ട് തുടങ്ങിയവ ആകാം മറ്റൊന്ന് റിസ്ക് മാനേജുമെന്റ് പ്ലാൻ ആണ് അതിനുള്ള അപകടസാധ്യത നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ത് റിസ്ക് വിശകലനം നിങ്ങൾ നടത്തി അപകടസാധ്യത എങ്ങനെ തിരിച്ചറിയാം അപകടസാധ്യത എങ്ങനെ കണക്കാക്കും അപകടസാധ്യത ഉപേക്ഷിക്കുകയോ ലഘൂകരിക്കുകയോ ചെയ്യുന്നത് എങ്ങനെ അതിനാൽ റിസ്ക് മാനേജ്മെന്റ് പ്ലാനിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് അതുപോലെ പ്രോജക്റ്റ് ട്രാക്കിംഗും നിയന്ത്രണ പദ്ധതിയും നിങ്ങൾ എങ്ങനെ പ്രോജക്റ്റ് ട്രാക്കുചെയ്യുന്നു നിങ്ങൾ എങ്ങനെ പ്രോജക്റ്റിനെ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള പദ്ധതി ഇവിടെ ചർച്ചചെയ്യണം അവസാനമായി എസ്പിഎംപി പ്രമാണത്തിൽ ഒരു വിവിധ വിഭാഗം ഉണ്ടായിരിക്കണം അതിൽ പ്രോസസ് ടൈലറിംഗ് ക്വാളിറ്റി അഷ്വറൻസ് വശങ്ങൾ കോൺഫിഗറേഷൻ മാനേജുമെന്റ് വശങ്ങൾ എന്നിവ എസ്പിഎംപി പ്രമാണത്തിൽ വിവിധ പദ്ധതികളുടെ തലക്കെട്ടിൽ വിവരിക്കും അതിനാൽ അടിസ്ഥാന കണക്കാക്കൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാം നമ്മൾ വികസിപ്പിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയറിന്റെ വലുപ്പം എന്തായിരിക്കണം അതിനാൽ നമ്മൾ വലുപ്പം കണക്കാക്കണം ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ എത്ര ശ്രമം ആവശ്യമാണ് സമാനമായ ശ്രമം ഇവിടെ കണക്കാക്കേണ്ടതുണ്ട് എത്ര കലണ്ടർ സമയം ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ എത്ര കാലാവധി ആവശ്യമാണ് അത് കണക്കാക്കേണ്ടതുണ്ട് അവസാനമായി പ്രവർത്തനത്തിന്റെ ആകെ ചെലവ് എന്തായിരിക്കും ഒരു പ്രോജക്റ്റിന്റെ മൊത്തം ചെലവ് എത്രയായിരിക്കും ഇവയും കണക്കാക്കേണ്ടത് അടിസ്ഥാന കണക്കാക്കൽ ചോദ്യങ്ങളാണ് ഉൽപ്പന്നത്തിന്റെ വലുപ്പം നമ്മൾ നിർണ്ണയിക്കണം വലുപ്പം അറിയാമെങ്കിൽ വലുപ്പ എസ്റ്റിമേറ്റിൽ നിന്നും ആവശ്യമായ പരിശ്രമം നിർണ്ണയിക്കാൻ നമുക്ക് കഴിയും കണക്കാക്കിയ പരിശ്രമത്തിൽ നിന്നുള്ള ശ്രമത്തിന്റെ കണക്കെടുപ്പിൽ നിന്ന് പ്രോജക്റ്റ് ദൈർഘ്യവും ചെലവും നിർണ്ണയിക്കാനാകും അതിനാൽ ഇനിപ്പറയുന്ന ഗ്രാഫിൽ ഈ ശ്രേണി പ്രതിനിധീകരിക്കാം ആദ്യം നമുക്ക് വലുപ്പം കണക്കാക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും വലുപ്പത്തിൽ നിന്ന് നമുക്ക് പരിശ്രമവും ദൈർഘ്യവും കണക്കാക്കാം പരിശ്രമത്തിൽ നിന്ന് ചെലവ് കണക്കാക്കാം തുടർന്ന് കണക്കാക്കിയ കാലയളവിൽ കണക്കാക്കിയ പരിശ്രമത്തിൽ നിന്ന് നമുക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ പ്രോജക്റ്റ് മാനേജർക്ക് സ്റ്റാഫിനെ കണക്കാക്കാനാകും കാലയളവ് കണക്കാക്കൽ സ്റ്റാഫ് കണക്കാക്കൽ എന്നിവയിൽ നിന്ന് പ്രോജക്ട് മാനേജർക്ക് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കാൻ കഴിയും സോഫ്റ്റ്വെയർ കോസ്റ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാം ഇനി പറയുന്നവ ആണ് സോഫ്റ്റ്വെയർ ചെലവ് ഘടകങ്ങൾ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്നാമത്തേത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ചെലവ് അതിനാൽ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിന് ചെലവ് ആവശ്യമാണ് അത് ഏത് ഹാർഡ്വെയറിൽ പ്രവർത്തിക്കും സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിന് ഹാർഡ്വെയർ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ ചെലവ് ആണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ചെലവ് hardware software cost പിന്നെ യാത്രാ പരിശീലന ചെലവ് അതായത് ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതിന് ആവശ്യമായ ചെലവും അവയുമായി ബന്ധപ്പെട്ട യാത്രയും പ്രധാന ഘടകങ്ങളാണ് മറ്റൊരു ഘടക൦ പ്രയത്നച്ചെലവ് അത് വളരെ പ്രധാനമാണ് ഒടുവിൽ ഈ പ്രോജക്റ്റിന് ആവശ്യമായേക്കാവുന്ന ഓവർഹെഡ് എന്താണെന്ന് അറിയണം ഇതിൽ നിന്ന് എല്ലാ കോസ്റ്റ് ഹാർഡ്വെയറുകളും പ്രധാന പ്രോജക്റ്റുകൾക്ക് ചിലവ് വരുത്തുന്നു മിക്ക പ്രോജക്റ്റുകളിലും ഇവ എഞ്ചിനീയർമാരുടെ ശമ്പളം ആണ് അതുകൊണ്ട് ഇത് ഏറ്റവും പ്രബലമായ ഘടകം ആയിരിക്കാം മൊത്തം ചെലവിന്റെ ശതമാനത്തിന്റെ ഭൂരിഭാഗവും അതിൽ അടങ്ങിയിരിക്കും തുടർന്ന് ഓവർഹെഡ്സ് അതിനാൽ ഓവർഹെഡുകൾ ഏതൊക്കെ പ്രോജക്റ്റിനുവേണ്ടിയല്ല മറിച്ച് വ്യത്യസ്ത പ്രോജക്റ്റുകൾക്കായുള്ളത് പോലെയാകാം കെട്ടിടം ചൂടാക്കൽ ലൈറ്റിംഗ് തുടങ്ങിയവയുടെ ചിലവ് ഇവിടെ കണക്കിലെടുക്കണം നെറ്റ്വർക്കിംഗിന്റെയും ആശയവിനിമയത്തിന്റെയും ചെലവ് പങ്കിട്ട സൌകര്യങ്ങളുടെ വില ലൈബ്രറി സ്റ്റാഫ് റെസ്റ്റോറന്റ് മുതലായവ അതിനാൽ ഇവയെ ഓവർഹെഡുകളായി കണക്കാക്കാം അതിനാൽ ഒരു പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ചെലവ് ഘടകങ്ങൾ വ്യത്യസ്തമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ് ഘടകമാണ് ശ്രമം അതിനാൽ ശ്രമം എങ്ങനെ അളക്കാം അളവ് പരിശ്രമിക്കുന്നതിന് നിങ്ങൾക്കാവശ്യമുള്ള ഒരു പദാവലി അളക്കുന്നതിന് അത് വ്യക്തിഗത മാസമായി അറിയപ്പെടുന്നു അത് പരിശ്രമവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരു പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിന് 300 വ്യക്തി മാസങ്ങൾ എടുക്കുമെന്ന് കണക്കാക്കപ്പെടുന്നുവെന്ന് കരുതുക ഇപ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഒരാൾ വെറും 3 ദിവസത്തേക്ക് ജോലി ചെയ്യുന്നു 30 പേർ 1 ദിവസത്തേക്ക് ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല തീർച്ചയായും ഇല്ല പിന്നെ എന്തുകൊണ്ട് അതിനാൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് നമുക്ക് ഒരു മനുഷ്യ മാസത്തിൽ എത്ര മണിക്കൂർ ഉണ്ടെന്ന് നോക്കാം സ്ഥിരസ്ഥിതി മൂല്യം പ്രതിമാസം 152 മണിക്കൂറാണെന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം 19 ദിവസം ചിലർ ജോലിചെയ്യണം അല്ലെങ്കിൽ ഒരാൾക്ക് 19 ദിവസം ജോലിചെയ്യണം ദിവസത്തിൽ 8 മണിക്കൂർ എന്തുകൊണ്ടാണ് വ്യക്തിഗത ദിവസങ്ങളോ വ്യക്തിഗത വർഷങ്ങളോ അല്ലാതെ വ്യക്തിഗത മാസം എന്ന് പറയുന്നത് സാധാരണയായി ആധുനിക പ്രോജക്ടുകൾ പൂർത്തിയാക്കാൻ കുറച്ച് മാസങ്ങളെടുക്കും ചില പ്രോജക്റ്റുകൾക്ക് 1 വർഷത്തേക്കാൾ കൂടുതൽ എടുത്തേക്കാം എന്നാൽ സാധാരണ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാൻ കുറച്ച് മാസങ്ങളെടുക്കും അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റുകൾക്ക് വ്യക്തിഗത വർഷം വ്യക്തമായി അനുയോജ്യമല്ലാത്തത് സമാനമായ വ്യക്തി ദിവസങ്ങൾ വളരെ ചെറുതായിരിക്കും വ്യക്തിഗത ദിവസങ്ങൾ അവയുടെ നിരീക്ഷണവും ഓവർഹെഡ് കണക്കാക്കലും വളരെ ബുദ്ധിമുട്ടാകും ഇത് വലുതും മടുപ്പിക്കുന്നതുമായിരിക്കും അതിനാൽ നടുവിൽ ഉള്ള മാസം എന്താണെന്നതിന് ശ്രമിക്കണം അതിനാൽ പരിശ്രമം അളക്കാൻ അനുയോജ്യമായ മെട്രിക്കാണ് ഇത് ഇനി കോസ്ടിങ്ങും പ്രൈസിങ്ങും നമുക്ക് നോക്കാം ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം നിർമ്മിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്തുന്നതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനാൽ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം നിർമ്മിക്കുന്നതിനുള്ള ചെലവ് എത്രയാണെന്ന് കണ്ടെത്താൻ നമ്മൾ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും വികസന ചെലവും ഉപഭോക്താവിന് ഈടാക്കുന്ന വിലയും തമ്മിൽ അത്തരം ലളിതമായ ഒരു ബന്ധവുമില്ലെന്ന് നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിയും ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പരിഗണിക്കുന്ന സാമ്പത്തിക ബിസിനസ് പരിഗണനകൾ ഉപഭോക്താവിന് ഈടാക്കുന്ന വില എന്നിവ നിങ്ങൾക്കറിയാം അതിനാൽത്തന്നെ പദ്ധതിയുടെ വികസന ചെലവും വിലയും തമ്മിൽ നേരിട്ടുള്ള ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മാത്രമല്ല പ്രോജക്റ്റ് നേടുന്നതിനായി ഉപഭോക്താവിൽ നിന്ന് നിരക്ക് ഈടാക്കുകയും ചെയ്യും ചെലവ് കണക്കാക്കൽ പ്രക്രിയ ഇതുപോലെ പ്രതിനിധീകരിക്കാൻ കഴിയും ഇത് രണ്ട് ഇൻപുട്ടുകൾ എടുക്കുന്നു ആവശ്യകതകളും മറ്റ് കോസ്റ്റ് ഡ്രൈവറുകളും ഈ കണക്കാക്കൽ പ്രക്രിയയ്ക്ക് ശേഷം നമുക്ക് പരിശ്രമം വികസന സമയം പരിശ്രമ വികസന സമയം ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ എണ്ണം പദ്ധതിയുടെ ചെലവ് എന്നിവയ്ക്കായി എസ്റ്റിമേറ്റുകൾ നേടാൻ കഴിയും ഇവയൊക്കെയാണ് സോഫ്റ്റ്വെയർ പ്രൈസിങ്ങിന്റെ ചില ഘടകങ്ങൾ അതായത് മാർക്കറ്റ് ഒപ്പർച്ചുനിടി ഈ മതിപ്പുചിലവ് അനിശ്ചിതത്വം എന്ന് പറയാം ഈ ഉള്ളവയിൽ സോഫ്റ്റ്വെയർ ബാധിക്കുന്ന ഘടകങ്ങളുമുണ്ട് പിന്നീട് ഈ സോഫ്റ്റ്വെയർ വില നിർണയത്തെ ബാധിച്ചേക്കാവുന്ന ചില ഘടങ്ങൾ ആണ് ജ്ഞാനത്തിന്റെ ചില വാക്കുകൾ ഇവിടെ നൽകിയിരിക്കുന്നു ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിന് വ്യക്തമായ നിർവചനങ്ങൾ ഇല്ലെങ്കിൽ അത് പ്രധാന നാഴികക്കല്ലുകളും സമയത്തെയും പണത്തെയും കുറിച്ചുള്ള യാഥാർത്ഥ്യബോധമാണ് അപ്പോൾ എന്ത് സംഭവിക്കും പ്രോജക്റ്റ് മാനേജർക്ക് പറയാൻ കഴിയില്ല അത് വളരെ ബുദ്ധിമുട്ടാണോ നിയന്ത്രണത്തിലാണോ അതോ നിയന്ത്രണത്തിന് അതീതമാണോ എന്ന് പ്രോജക്ട് മാനേജർക്ക് പറയാൻ കഴിയില്ല അടുത്തത് എപ്പോൾ ആണ് എസ്റ്റിമേറ്റുകൾ ആവശ്യമുള്ളത് പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത എസ്റ്റിമേറ്റുകൾ ആവശ്യമാണ് ആദ്യഘട്ടത്തിലെ തുടക്കത്തിലെന്നപോലെ സമയച്ചെലവും ആനുകൂല്യങ്ങളുടെ എസ്റ്റിമേറ്റുകളും കണക്കാക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പ്രോജക്റ്റ് ഷെഡ്യൂളിലെ ആസൂത്രണ ഘട്ട സമയ എസ്റ്റിമേറ്റുകളും പ്രോജക്റ്റ് ബജറ്റിലെ ചെലവ് എസ്റ്റിമേറ്റുകളും ബിസിനസ്സ് കേസിലെ ചെലവ് ആനുകൂല്യ എസ്റ്റിമേറ്റുകളും ആവശ്യമാണ് അതുപോലെ തന്നെ പ്രോജക്റ്റ് ഘട്ടങ്ങളുടെ ആരംഭത്തിൽ സമയവും ചെലവും ആവശ്യമായി വരുന്നത് ഈ ഘട്ടത്തിനായി വീണ്ടും സ്ഥിരീകരിച്ചതായി കണക്കാക്കുന്നു പ്രോജക്റ്റിന്റെ ഈ എസ്റ്റിമേറ്റ് വളരെ ആത്മനിഷ്ഠ സ്വഭാവമാണെന്ന് നിങ്ങൾക്കറിയാ൦ ഇത് അതിന്റെ ചില പ്രശ്നങ്ങളാണ് അതിനാൽ ആത്മനിഷ്ഠ സ്വഭാവം കണക്കാക്കുമ്പോൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു കാരണം ഇത് ആത്മനിഷ്ഠവും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമാണ് ഇത് കണക്കാക്കുമ്പോൾ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നു നിലവിലെ സാങ്കേതികവിദ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ സാങ്കേതികവിദ്യയിൽ മാറ്റം വരുത്തുന്നത് പ്രോജക്റ്റ് എസ്റ്റിമേറ്റിന് സോഫ്റ്റ്വെയറിനെ തടസ്സപ്പെടുത്തുന്നു ഒടുവിൽ ഇന്നത്തെ പ്രോജക്ടുകൾ എന്താണെന്ന് അവർക്കറിയാം അവർ അതായത് ക്ലയന്റുകൾ നൽകുന്നു അതിനാൽ അവ സ്വഭാവത്തിൽ വളരെ വ്യത്യസ്തമാണ് ഒരു പ്രോജക്റ്റിലെ അനുഭവം അവയുടെ സ്വഭാവം വ്യത്യസ്തമായതിനാൽ മറ്റൊന്നിന് ബാധകമാകില്ല അതിനാൽ വ്യത്യസ്ത ഘടകങ്ങളെ വിവിധ പാരാമീറ്ററുകളെ കണക്കാക്കുന്നതിൽ ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും കണക്കാക്കലുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഇപ്പോൾ നോക്കാം ഒരെണ്ണം കഴിഞ്ഞു എസ്റ്റിമേറ്റിംഗിന് മുകളിലാണ് മറ്റൊന്ന് എസ്റ്റിമേറ്റിംഗിലാണ് കണക്കാക്കുമ്പോൾ അവ രണ്ട് നിയമങ്ങളാൽ നയിക്കപ്പെടുന്നു അതിലൊന്ന് പാർക്കിൻസൺ നിയമമാണ് അത് ലഭ്യമായ എല്ലാ സമയത്തും പൂരിപ്പിക്കുന്നതിന് ജോലി വിപുലീകരിക്കുന്നു അതിനർത്ഥം നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് 20 ദിവസം കണക്കാക്കിയാൽ 30 ദിവസം നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും ആളുകൾക്ക് ലഭ്യമായ സമയം നിറയ്ക്കുന്നതിനായി അവർ വികസിപ്പിക്കും അവർ മനപൂർവ്വം പ്രവർത്തിക്കില്ല അവർ എപ്പോഴെങ്കിലും അവശേഷിക്കുന്ന സമയത്ത് ശ്രമിക്കും രണ്ട് ദിവസം പോലും കാത്തിരിക്കാം ആ ദിവസങ്ങളിൽ തീർപ്പുകൽപ്പിക്കാത്ത ജോലികൾ ചെയ്യും ലഭ്യമായ സമയം പൂരിപ്പിക്കുന്നതിന് ജോലി വിപുലീകരിക്കുന്നു നിങ്ങൾ ദൈർഘ്യം അമിതമായി വിലയിരുത്തിയാൽ ഇത് സംഭവിക്കും കുറച്ചുകാണുന്ന നേട്ടമാണെങ്കിൽ അമിത ചെലവ് ഉണ്ടാകില്ല എന്നതാണ് പക്ഷേ സിസ്റ്റം സാധാരണയായി പൂർത്തിയാകാത്തതും അത് നിലവാരമില്ലാത്തതുമായിരിക്കും അതിനാൽ മറ്റൊരു നിയമം ഇത് പ്രശ്നത്തെ കണക്കാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു ഇതാണ് വെയ്ൻബെർഗിന്റെ സീറോത്ത് വിശ്വാസ്യത നിയമം Weinberg's Zeroth Law of reliabilty ഒരു വിശ്വാസ്യത ആവശ്യകത പാലിക്കാത്ത ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിന് മറ്റേതെങ്കിലും ആവശ്യകതകൾ നിറവേറ്റാൻ കഴിയുമെന്ന് അതിൽ പറയുന്നു ഈ വിശ്വാസ്യത ആവശ്യകത ആവശ്യമില്ലെങ്കിൽ അത് പാലിക്കേണ്ടതില്ല അഭികാമ്യമല്ലാത്ത മറ്റേതെങ്കിലും ആവശ്യകതകൾ ഇതിന് നിറവേറ്റാൻ കഴിയും അണ്ടർ എസ്റ്റിമേടിന്റെ ഫലം എന്നാൽ അത് ആക്രമണാത്മക ലക്ഷ്യം കൊണ്ട് പ്രചോദനവും മനോവീര്യവും താഴ്തപെടും അതിനാൽ ആ പ്രൊജക്റ്റ് ഉപേക്ഷികേണ്ടി വരാം സമയം കുറവായതിനാൽ സമ്മർദ്ദം ഉണ്ടാകുമെന്നതിനാൽ അവർ ഗുണനിലവാരവുമായി വിട്ടുവീഴ്ച ചെയ്യും മാത്രമല്ല അവ ഗണ്യമായ ജോലി സൃഷ്ടിക്കുകയും ചെയ്യും അതിനാൽ പ്രോജക്റ്റ് ഉപേക്ഷികേണ്ടി വന്നേക്കാം വിജയകരമായി കണക്കാക്കുന്നതിനുള്ള അടിസ്ഥാനം എന്താണെന്ന് ഇപ്പോൾ നോക്കാം പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് സമാനമായ മുൻകാല പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് മറ്റൊന്ന് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജോലിയുടെ അളവ് എങ്ങനെ അളക്കണമെന്ന് അറിഞ്ഞിരിക്കണം പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജോലിയുടെ അളവ് അളക്കാൻ പ്രോജക്റ്റ് മാനേജർക്ക് കഴിയേണ്ടതുണ്ട് അതിനാൽ വിജയകരമായ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനം ഇതാകും ഉൾപ്പെട്ടിരിക്കുന്ന ജോലിയുടെ അളവ് അളക്കുന്നതിന് പരമ്പരാഗത അളവുകളായ എൽഒസി ലൈൻസ് ഓഫ് കോഡ് എന്നിവ ഉപയോഗിച്ചേക്കാം പക്ഷേ അടുത്ത ക്ലാസിൽ എൽഒസിയുടെ ചില പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം അടുത്തത് എസ്റ്റിമേറ്റുകൾ പരിഷ്കരിക്കുന്നതിനെ കുറിച്ചാണ് എസ്റ്റിമേറ്റുകൾ എങ്ങനെ പരിഷ്കരിക്കാം ഈ കണക്കാക്കൽ ഒരു ഘട്ടത്തിൽ ചെയ്തിട്ടില്ലെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് ക്രമേണ അത് അപ്ഡേറ്റ് ചെയ്യണം അത് പരിഷ്കരിക്കേണ്ടതുണ്ട് എസ്റ്റിമേറ്റുകൾ പരിഷ്കരിക്കുന്നതിനോ എസ്റ്റിമേറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഈ എസ്റ്റിമേറ്റുകൾ ക്രമീകരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം കാരണം ഇന്ററാക്ഷൻ കോസ്റ്റ് എസ്റ്റിമേറ്റുകളിൽ മറഞ്ഞിരിക്കുന്നു അവ മറച്ചിരിക്കുന്ന ആശയവിനിമയ ചെലവ് എന്തൊക്കെയാണ് അവ പുറത്തുവരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവ കണ്ടെത്താനാകില്ല അവയും ചില സ്വാധീനം ചിലത്തുന്നു സാധാരണ അവസ്ഥകൾ ബാധകമാകില്ല അതിനാൽ വ്യത്യസ്ത പ്രോജക്റ്റുകളിൽ കാര്യങ്ങൾ തെറ്റിയേക്കാം പ്രോജക്റ്റുകളിലെ മാറ്റങ്ങൾ പ്രോജക്റ്റ് സ്കോപ്പിലും പ്ലാനുകളിലും ചില മാറ്റങ്ങളുണ്ടാകാം അവയെല്ലാം സംയോജിപ്പിക്കുന്നതിന് ആണ് അത് ചെയ്യുന്നത് അതിനാൽ എസ്റ്റിമേറ്റുകൾ ക്രമീകരിക്കാൻ പ്രോജക്ട് മാനേജർ അവ പരിഷ്കരിക്കണം എസ്റ്റിമേറ്റുകൾ ക്രമീകരിക്കുക എന്നതിനർത്ഥം ക്രമീകരിച്ച ചില പ്രവർത്തനങ്ങളുടെ സമയവും ചെലവ് കണക്കാക്കലും റിസ്ക് റിസോഴ്സുകളും സാഹചര്യ വിശദാംശങ്ങളും പിന്നീടുള്ള ഘട്ടങ്ങളിൽ കൂടുതൽ വ്യക്തമായി നിർവചിക്കപ്പെടുന്നതിനാൽ അവ പരിഷ്കരിക്കപ്പെടുന്നു ചില നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളുടെ സമയവും ചെലവ് കണക്കാക്കലും പ്രോജക്ട് മാനേജർ ക്രമീകരിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യേണ്ടതുണ്ട് അവസാനമായി പദ്ധതി ആസൂത്രണ വേളയിൽ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആദ്യം ചർച്ച ചെയ്തതായി കാണാം അതിനാൽ ഈ പദ്ധതി ആസൂത്രണ വേളയിൽ നടപ്പാക്കുന്ന ചില പദ്ധതികളെപ്പോലെ സ്റ്റാഫ് ഓർഗനൈസേഷനും എസ്റ്റിമേറ്റും ഷെഡ്യൂളിംഗും നമ്മൾ കണ്ടു പ്രോജക്റ്റ് ആസൂത്രണത്തിന്റെ ഫലം എസ്പിഎംപി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജുമെന്റ് പ്ലാൻ ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്ന ഒരു പ്രമാണമാണെന്നും കണ്ടു ആമുഖം വിവിധ എസ്റ്റിമേറ്റുകൾ എന്നിങ്ങനെയുള്ള ഉള്ളടക്കങ്ങൾ ഇവിടെ നമ്മൾ ചർച്ചചെയ്യുന്നു കൂടാതെ ഷെഡ്യൂളിംഗ് മറ്റ് പലത്തിനെക്കുറിച്ചും ഒരു വിഭാഗം ഉണ്ടാകും പ്രോജക്റ്റ് എസ്റ്റിമേറ്റിന്റെ ചില അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ ചർച്ചചെയ്തു പ്രോജക്റ്റ് എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനമെന്താണ് എങ്ങനെയാണ് പ്രോജക്റ്റുകൾ എസ്റ്റിമേറ്റ് ശരിയാകാത്തത് കൂടാതെ സ്ലൈഡിംഗ് വിൻഡോ എസ്റ്റിമേറ്റും നമ്മൾ കണ്ടു സ്ലൈഡിംഗ് വിൻഡോ കണക്കാക്കൽ കാരണം പ്രോജക്റ്റ് മാനേജർമാർ എസ്റ്റിമേറ്റ് ഒരു ഘട്ടത്തിൽ ചെയ്യരുത് പകരം അവർ അത് പല ഘട്ടങ്ങളിൽ നിർവഹിക്കണം പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് സമയത്തോ അല്ലെങ്കിൽ വിവിധ എസ്റ്റിമേറ്റുകൾ കണക്കുകൂട്ടുന്ന സമയത്തോ കണക്കിലെടുക്കാവുന്ന ലാറ്ററൽ ഘട്ടങ്ങളിൽ കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയോ നേടുകയോ ചെയ്യാം അതിനാലാണ് നിങ്ങൾ ഈ സ്ലൈഡിംഗ് വിൻഡോ കണക്കാക്കൽ ഉപയോഗിക്കേണ്ടത് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞതുപോലെ ആദ്യം പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ ഒരൊറ്റ പേജിൽ ഇത് ചെയ്യാൻ പാടില്ല ക്രമേണ കൂടുതൽ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങളിൽ വരുന്നതുപോലെ നിങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് മാനേജർക്കോ ഈ വിവിധ എസ്റ്റിമേറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനോ ക്രമീകരിക്കാനോ കഴിയും ഇത് കൂടുതൽ കൃത്യമായ എസ്റ്റിമേറ്റുകൾ നിങ്ങൾക്ക് തരും വിവിധ എസ്റ്റിമേറ്റുകൾ വിഭാഗങ്ങൾ എന്തൊക്കെയാണ് എസ്റ്റിമേറ്റ് ടെക്നിക്കുകളുടെ ടാക്സോണമി എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യും പ്രാരംഭ അളവുകളിലൊന്ന് വലുപ്പമാണെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വലുപ്പങ്ങൾ ശരിയായി കണക്കാക്കാൻ കഴിയുമെങ്കിൽ ഇഫക്റ്റ് ദൈർഘ്യം പരിശ്രമ ദൈർഘ്യം ചെലവ് എന്നിവ പോലുള്ള മറ്റ് പാരാമീറ്ററുകൾ നിങ്ങൾക്ക് കണക്കാക്കാം അതിനാൽ അതും അടുത്ത ക്ലാസ്സിൽ ഈ വലുപ്പ കണക്കാക്കൽ പോലെ നമ്മൾ ചർച്ച ചെയ്യും ഇവയാണ് റഫരണ്സുകൾ വളരെയധികം നന്ദി